എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആഴ്ച 6 മൊഡ്യൂൾ നമ്പർ 2 പ്രഭാഷണ നമ്പർ 32 എന്നിവയാണ് ഈ ആഴ്ച ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രത്യേകിച്ചും ഈ മൊഡ്യൂളിൽ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പതിവുപോലെ ആരംഭിക്കുന്നതിന് മുമ്പ് അവസാന പ്രഭാഷണത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഫലപ്രദമായ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫലപ്രദമായ ആശയവിനിമയക്കാരൻ എല്ലായ്പ്പോഴും നയിക്കുന്ന ഒരാളാണെന്നും ഈ ഫലപ്രദമായ ആശയവിനിമയക്കാരനെ പിന്തുടരുന്നതിൽ ആളുകൾ സന്തുഷ്ടരാകുമെന്നും ഞാൻ എടുത്തുപറഞ്ഞു ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ ആളുകളും സന്തുഷ്ടരാകും ഒരു വ്യക്തിക്ക് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയാത്തതിനാലും ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതെന്തും പ്രകടിപ്പിക്കാൻ കഴിയാത്തതിനാലും വരുന്നതായി ഞങ്ങൾ കണ്ടെത്തിയ എല്ലാ അസന്തുഷ്ടിയും എന്നിരുന്നാലും ആശയവിനിമയം വളരെ സങ്കീർണ്ണമായ ഒരു സംവേദനാത്മക പ്രക്രിയയാണ് അതിൽ പങ്കിട്ട അനുമാനങ്ങളും സംസാരിക്കാത്ത കരാറും ഉൾപ്പെടുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ഈ അനുമാനങ്ങളും കരാറുകളും വളരെ വ്യക്തമല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ ഉണ്ടാകും ഇടയ്ക്കിടെ തെറ്റായ ആശയവിനിമയം സാധ്യമാകും മൊത്തത്തിൽ ഫലപ്രദമായ ആശയവിനിമയം എന്നത് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമായ പ്രതികരണത്തിന് കാരണമാകാനുള്ള നിങ്ങളുടെ കഴിവാണ് തുടർന്ന് അടിസ്ഥാന ആശയവിനിമയ പ്രക്രിയയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു നിങ്ങൾ അഞ്ച് ഡബ്ല്യുഎച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ കഴിയും അതിൽ ആരാണ് ഏത് ചാനലിലൂടെ ആർക്ക് എന്ത് അയയ്ക്കുന്നു എന്നത് ഉൾപ്പെടുന്നു അവസാനം ഫലപ്രദമായ ആശയവിനിമയത്തിന് കാരണമാകുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം ചർച്ച ചെയ്തു സംക്ഷിപ്തതയിൽ നിന്നും വ്യക്തതയിൽ നിന്നും ആരംഭിക്കുന്ന അഞ്ച് വശങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടർന്ന് ബോധ്യവും ആത്മവിശ്വാസവും സത്യസന്ധതയും താൽപ്പര്യവും സഹാനുഭൂതിയും സമയബോധവും ഹ്രസ്വതയും ഫലപ്രാപ്തിയും അതിനാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയക്കാരനാകാൻ നിങ്ങളെ നയിക്കുന്ന വശങ്ങളാണിവ ഇപ്പോൾ ചില തടസ്സങ്ങളായിരിക്കാവുന്ന ഫലപ്രദമായ ആശയവിനിമയക്കാരനാകാനുള്ള നിങ്ങളുടെ മികച്ച ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒന്ന് ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിലായിരിക്കും ചിലപ്പോൾ അത് നിങ്ങളിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിലല്ല മറിച്ച് അത് സ്വീകരിക്കുന്നയാൾ കാരണമാണ് മുമ്പത്തേതിൽ ഞാൻ ചർച്ച ചെയ്ത ഈ ആശയവിനിമയ പ്രക്രിയ വിപുലീകരിച്ച മാതൃക ഓർക്കുക അതിനാൽ നിങ്ങൾ അയയ്ക്കുന്ന സന്ദേശം എൻകോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോഴും മറ്റേയാൾ ഡീകോഡ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു അതിനിടയിൽ ഒരുതരം തടസ്സങ്ങളായി പ്രവർത്തിക്കുന്ന എന്തോ ഉണ്ട് അവയെ ഞാൻ തടസ്സങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ തടസ്സങ്ങൾ എന്താണെന്നും അവ ആശയവിനിമയത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ തടസ്സങ്ങളിൽ ചിലത് എങ്ങനെ മറികടക്കാമെന്നും തിരിച്ചറിയാൻ ശ്രമിക്കും തടസ്സങ്ങൾ ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളാണ് തടസ്സങ്ങൾ ആശയങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് തടസ്സങ്ങൾ സജീവമായ കേൾവിയും ശ്രദ്ധാപൂർവ്വമായ പ്രതികരണവും തടയുന്ന ഒന്നാണ് ഈ തടസ്സങ്ങൾ ശാരീരികവും മാനസികവും വൈകാരികവും മാനസികവുമായ തടസ്സങ്ങളായി പ്രവർത്തിക്കുകയും ആശയവിനിമയത്തിൻറെയും തെറ്റായ ആശയവിനിമയത്തിൻറെയും പരാജയത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഈ പ്രഭാഷണത്തിൽ നാം പ്രത്യേകിച്ചും രണ്ട് അടിസ്ഥാന തടസ്സങ്ങളിലൊന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആദ്യത്തേത് അയയ്ക്കുന്നവരുടെയോ സ്വീകരിക്കുന്നവരുടെയോ വ്യക്തിത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അടുത്ത പ്രഭാഷണത്തിൽ നാം വ്യക്തിപരമായ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ എൻകോഡിംഗ് ഡീകോഡിംഗ് തലത്തിൽ പോലും തടസ്സം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കുക ഇത് എൻകോഡ് ചെയ്യപ്പെടുകയും തുടർന്ന് അയച്ചയാളും സ്വീകർത്താവും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു അവർ ഒരു പൊതു കോഡ് പങ്കിടുന്നില്ലെങ്കിൽ അവർ ഒരു പൊതു ഭാഷ പങ്കിടുന്നില്ലെങ്കിൽ അവർക്ക് ഒരു പൊതു ഫ്രെയിം ഓഫ് റഫറൻസ് ഇല്ലെങ്കിൽ അപ്പോൾ അർത്ഥം മനസ്സിലാകില്ല അത് ശരിയായി വ്യാഖ്യാനിക്കില്ല ഈ ഉദാഹരണം എടുക്കുക ഓഫീസിലെ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള ഒരു വാചകം ദയവായി ഒരു ഇലക്ട്രീഷ്യനെ അയയ്ക്കുക അതിനാൽ ഇത് ഒരു എസ്എംഎസായി വരുന്നു തുടർന്ന് മറ്റേയാൾക്ക് അത് ലഭിക്കുന്നു ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കും അതിനാൽ നിങ്ങളുടെ ഓഫീസിൽ ഒരുതരം വൈദ്യുതി തകരാറുണ്ടെന്ന് നിങ്ങൾ പറയും അതിനാൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യന്റെ സഹായം ആവശ്യമാണ് അതിനാൽ ഇത് ഒരു പൊതു റഫറൻസ് ചട്ടക്കൂടാണ് എന്നാൽ ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ച് അവരുടെ തൊഴിലുകളെ ആശ്രയിച്ച് പൊതുവായ റഫറൻസ് ചട്ടക്കൂട് മാറിയേക്കാം ഉദാഹരണത്തിന് ഇത് ഒരു ചാര കഥയിൽ സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ജെയിംസ് ബോണ്ട് തൻ്റെ മേലധികാരിയായ എം ന് അയയ്ക്കുന്ന ഒന്നാണെന്ന് സങ്കൽപ്പിക്കുക ഇപ്പോൾ വ്യാഖ്യാനം എന്തായിരിക്കാം അദ്ദേഹം വ്യക്തമായും ഒരു ഇലക്ട്രീഷ്യനെ ആവശ്യപ്പെടുന്നില്ല ഇത് ഇതിലും കൂടുതലായിരിക്കുമോ ഓഫീസിലെ ഷോർട്ട് സർക്യൂട്ട് എന്നതിനർത്ഥം എന്റെ പങ്കാളിയെ തട്ടിക്കൊണ്ടുപോയി എന്നോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ എന്റെ പങ്കാളി കൊല്ലപ്പെട്ടെന്നോ അർത്ഥമാക്കാം ദയവായി ഒരു ഇലക്ട്രീഷ്യനെ അയയ്ക്കുക എന്നതിനർത്ഥം ദയവായി എന്റെ സഹായത്തിനായി ആരെയെങ്കിലും അയയ്ക്കുക യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രീഷ്യനല്ല പക്ഷേ യഥാർത്ഥത്തിൽ അവനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ് അതിനാൽ സന്ദേശം എൻകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ഒരു പൊതു ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ബന്ധപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ ഈ പൊതുവായ റഫറൻസ് ഫ്രെയിം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും അയയ്ക്കുന്നവനും സ്വീകരിക്കുന്നവനും ഇടയിൽ സംഭവിക്കുന്ന മറ്റൊരു ഉദാഹരണം നോക്കുക ഈ സാഹചര്യത്തിൽ സന്ദേശം അയയ്ക്കുന്നയാൾ ഒരു സ്ത്രീ തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമല്ല അല്ലെങ്കിൽ ഭാഷയുടെ അനുചിതമായ ഉപയോഗം ഉപയോഗിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഈ തെറ്റായ ആശയവിനിമയത്തിന് കാരണമാകുന്നു നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചെത്തിയ ഒരു അമേരിക്കൻ ടൂറിസ്റ്റിന്റെ യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണിത് അവൾ മറ്റൊരു സ്ഥലത്തേക്ക് കണക്റ്റീവ് ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്നു ഇപ്പോൾ എയർപോർട്ടിൽ എല്ലാവരെയും പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ അവൻ അവളെ പരിശോധിക്കുന്നു അവൻ അവളോട് ചോദിച്ചു അവളുടെ തൊഴിൽ എന്താണ് ഇപ്പോൾ അവൾ വെറും ഹൌസ് മാനേജർ ആണെന്ന് പറയുന്നതിനുപകരം അവൾ വീട്ടിലാണ് അതിനാൽ ആരും ഇല്ലെന്ന് അവൾ പറഞ്ഞു അതിനാൽ ഉദ്യോഗസ്ഥൻ അവൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നോക്കി അതിനാൽ ധാരാളം ബാഗുകൾ ഉണ്ടായിരുന്നു അവളുടെ ഹാൻഡ്ബാഗിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടായിരുന്നു വളരെ വിലയേറിയ ആഭരണങ്ങൾ കുറച്ച് വജ്രം പതിച്ച ഹെയർ ക്ലിപ്പ് അതിനാൽ അവൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലുടനീളം വളരെ വിലകൂടിയ വസ്തുക്കൾ വാങ്ങി എന്നിട്ട് ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതിനാൽ അദ്ദേഹം മുന്നോട്ട് പോയി തുടർന്ന് പരിശോധിക്കാൻ തുടങ്ങി അതിനാൽ അവൻ അവളുടെ ബാഗുകളെല്ലാം പരിശോധിച്ചു അവൻ അവളുടെ ഹാൻഡ്ബാഗ് പരിശോധിച്ചു അവർ അവളെ ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് അവർ അവളെ പരിശോധിച്ചു അവർ അവളുടെ ഷൂസ് എടുത്തു അവർ മുറിച്ചു തുടർന്ന് അവർ എന്തെങ്കിലും പരിശോധിച്ചു പിന്നെ ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം അവർ പറഞ്ഞു നന്നായി മാഡം നിങ്ങൾക്ക് പോകാം അപ്പോൾ ആ സ്ത്രീ ദേഷ്യപ്പെട്ടു അവൾ പറഞ്ഞു നിങ്ങൾ ആളുകളെ ക്രമരഹിതമായി തടയുകയും തുടർന്ന് നിങ്ങൾ അവരെ പരിശോധിക്കുകയും ചെയ്യുന്നത് പോലെയാണോ നിങ്ങളുടെ വിനോദത്തിനായി ഇപ്പോൾ എനിക്ക് എന്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് നഷ്ടമായി എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു തുടർന്ന് എല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു തുടർന്ന് നമ്മൾ അതുപോലെ തന്നെ പോകണം അതിനാൽ ഉദ്യോഗസ്ഥൻ ആശയക്കുഴപ്പത്തിലായി ഞാൻ നിങ്ങളുടെ തൊഴിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മാഡം നിങ്ങൾ ഒന്നും പറഞ്ഞില്ല അതിനാൽ ഞങ്ങൾ വളരെ ആശ്ചര്യപ്പെട്ടു അതിനാൽ അവൾക്ക് യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലായില്ല പക്ഷേ ഉദ്യോഗസ്ഥൻ ഇത് ഒന്നുമില്ല എന്ന് കേട്ടപ്പോൾ അവൻ എൻ യു എൻ നെക്കുറിച്ച് ചിന്തിച്ചു സാധാരണയായി നമ്മൾ സഹോദരി എന്ന് വിളിക്കുന്നു അതിനാൽ അവൾ ഒരു സഹോദരിയാണെങ്കിൽ അവൾ ഒരു കന്യാസ്ത്രീയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ ഇത്രയധികം വിലയേറിയ വസ്തുക്കൾ വഹിക്കുന്നതെന്നും പിന്നെ എന്തുകൊണ്ടാണ് അവൾ ലളിതമായി കാണപ്പെടാത്തതെന്നും അവൾ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കരുതി ശബ്ദം ഒന്നുതന്നെയാണ് ഒന്നുമില്ല ഒന്നുമില്ല അർത്ഥവും അക്ഷരങ്ങളും വ്യത്യസ്തമാണ് അതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരാൾ എന്താണ് അയയ്ക്കുന്നതെന്നും മറ്റൊരാൾക്ക് എന്താണ് ലഭിച്ചതെന്നും വ്യക്തമായി അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവരുടെ ലക്ഷ്യത്തിൽ വ്യക്തതയില്ലാത്തപ്പോൾ അവർ അനുചിതമോ ഉചിതമോ ആയ ഭാഷ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ഒരു പ്രശ്നമായി മാറുന്നു അവർ വ്യക്തത തേടിയാൽ അത് മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ശരിക്കും ഒരു കന്യാസ്ത്രീയാണോ എന്ന് അവളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർ ചോദിക്കുകയും തുടർന്ന് നിങ്ങൾ ഏതെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്താൽ നിങ്ങൾ സഭയ്ക്ക് എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമാകുമായിരുന്നു എന്നാൽ എങ്ങനെയോ ഞാൻ പറഞ്ഞതുപോലെ ഭാഷ യഥാർത്ഥത്തിൽ രസകരമാണ് ഞങ്ങൾ ഗെയിമുകൾ കളിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അനുമാനങ്ങളുണ്ട് ആളുകൾ അത് മനസിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അയച്ചയാളും സ്വീകർത്താവും തമ്മിലുള്ള മറ്റൊരു രസകരമായ ഉദാഹരണം നോക്കൂ ഇത്തവണ സ്വീകർത്താവിന് സന്ദേശം ശരിയായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയില്ല മദ്യപിക്കുന്നതിന്റെ തിന്മകൾ തൻറെ വിദ്യാർത്ഥികളോട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു അധ്യാപകൻറെ ഉദാഹരണമാണിത് ടീച്ചർ ക്ലാസ്സിൽ പോയി പിന്നെ ഒരു ലിറ്റർ കുപ്പി എടുത്തു എന്നിട്ട് കുപ്പിയിൽ ഒരു റാക്ക് മദ്യം കഴിച്ചു അത് വളരെ ദുർഗന്ധമുള്ളതാണ് അതിനാൽ ഇത് കുടിക്കുന്നത് വളരെ മോശമാണെന്ന് അവരെ കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ അവർക്ക് ഒരു പ്രകടനം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു പിന്നെ മറുവശത്ത് ഒരു ചെറിയ സുതാര്യമായ കുപ്പി അയാൾ പൂന്തോട്ടത്തിൽ നിന്ന് പുതിയ മണ്ണിരകൾ എടുക്കുകയും അവ അലറുകയും ചെയ്തു അതിനാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുമോ എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു അവർ അതെ സർ എന്താണെന്ന് പറഞ്ഞു സർ ഇത് ഒരു റാക്ക് ആണെന്ന് അവർ പറഞ്ഞു അതിനാൽ ഇത് മദ്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം സർ നിങ്ങൾ അത് അവിടെ ഒട്ടിച്ചു തുടർന്ന് അതിൽ നിന്ന് വളരെ ദുർഗന്ധം വമിക്കുന്നു അതിനാൽ ഇത് ഒരു റാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹം അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു സർ അവർ മണ്ണിരകളാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർ പറഞ്ഞു അതെ സർ അവർ ജീവിച്ചിരിപ്പുണ്ട് അതിനാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ അദ്ദേഹം ഒരു മണ്ണിരയെ എടുത്ത് അരാക്ക് കുപ്പിക്കുള്ളിൽ ഉപേക്ഷിച്ചു അതിനാൽ മണ്ണിര വളരെ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു പക്ഷേ അത് പോയി അത് പരന്നുകിടക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും വളരെ കൌതുകത്തോടെ അത് നോക്കി തുടർന്ന് അവർ അവരുടെ സഹതാപം പ്രകടിപ്പിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ പറഞ്ഞു തുടർന്ന് അവർ വളരെ ആകാംക്ഷയോടെ അത് നോക്കി പിന്നെ വീണ്ടും അവൻ മറ്റൊരു മണ്ണിരയെ എടുത്തു എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ പറഞ്ഞു അത് മരിക്കുകയാണ് അതിനാൽ അദ്ദേഹം എല്ലാ പുഴുക്കളെയും ഓരോന്നായി ഇടുകയും ഒടുവിൽ എല്ലാ പുഴുക്കളും മരിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം അവരെ വീണ്ടും കുപ്പി കാണിച്ചു തുടർന്ന് നിങ്ങൾക്ക് സന്ദേശം വ്യക്തമായി ലഭിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവസാനത്തെ ഒരാൾ കൈ ഉയർത്തി അതെ സർ അതെ സർ എനിക്ക് സന്ദേശം വ്യക്തമായി ലഭിച്ചു എനിക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലായി ദയവായി എഴുന്നേറ്റ് മറ്റ് വിദ്യാർത്ഥികളോട് വിശദീകരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൈ ഉയർത്തിയ സ്മാർട്ട് വിദ്യാർത്ഥി എഴുന്നേറ്റു പിന്നെ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു സർ നമ്മൾ മദ്യം കഴിച്ചാൽ അത് നമ്മുടെ വയറിലെ എല്ലാ പുഴുക്കളെയും കൊല്ലും അതിനാൽ സർ നമ്മൾ കഴിയുന്നത്ര മദ്യം കഴിക്കണമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ നമ്മുടെ വയറ് ശുദ്ധീകരിക്കപ്പെടും പ്രത്യേകിച്ച് ഓരോ ഭക്ഷണത്തിനും ശേഷമെങ്കിലും അത് എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാക്കുകയും നമ്മുടെ സിസ്റ്റം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും മദ്യം കുടിക്കുന്നത് വളരെ മോശമാണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന് അയച്ചയാൾ അധ്യാപകൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ കൊല്ലും ഒടുവിൽ അത് ആദ്യം വയറിനെ കൊല്ലുന്നതിലൂടെ ആരംഭിക്കും പിന്നെ പതുക്കെ അത് മണ്ണിരകൾ പോലെയുള്ള എല്ലാ അവയവങ്ങളെയും കൊല്ലുകയും അവ വേഗത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യും ഇപ്പോൾ വിദ്യാർത്ഥിക്ക് മറ്റൊരു സന്ദേശം ലഭിച്ചു അത് വയറിലെ പുഴുക്കളെ മാത്രമേ കൊല്ലൂ എന്ന് അദ്ദേഹം കരുതി അദ്ദേഹത്തിന് പൂർണ്ണമായും നെഗറ്റീവ് അർത്ഥം ലഭിച്ചു അതിനാൽ സ്വീകർത്താവിന് സന്ദേശം ശരിയായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയാത്തപ്പോൾ ഇത് സംഭവിക്കുന്നു സ്വീകർത്താവിന് വ്യത്യസ്തമായ രീതിയിൽ ലഭിച്ച എന്തെങ്കിലും അധ്യാപകർ പറയുകയും വ്യത്യസ്തമായ വ്യാഖ്യാനം നൽകുകയും ചെയ്തു അതിനാൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വ്യക്തിത്വ തടസ്സങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം വ്യക്തിത്വ തടസ്സങ്ങൾ കൂടുതലും മാനസിക സ്വഭാവമുള്ളവയാണ് ഇത് മനസ്സിൽ സംഭവിക്കുന്നു അത് മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് തുടർന്ന് ആളുകൾ ആശയവിനിമയത്തിലെ സാമാന്യതയെ നിസ്സാരമായി കാണുന്നു ഉദാഹരണത്തിന് അവർ പശ്ചാത്തലത്തിലെ വ്യത്യാസങ്ങൾ അവഗണിക്കുന്നു ധാരണയിലെ വ്യത്യാസവും അവഗണിക്കപ്പെടുന്നു പെർസെപ്ഷനെക്കുറിച്ച് നമ്മൾ ഒരു സമ്പൂർണ്ണ പ്രഭാഷണം ചെലവഴിച്ചുവെന്ന് ഓർക്കുക ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഉദാഹരണം ഇവിടെ നോക്കുക ഒരു നരവംശശാസ്ത്രജ്ഞൻ ഒരു പഴയ നരഭോജിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ അനുഭവത്തിന്റെ പ്രശസ്തമായ ഉദാഹരണമാണിത് ഈ നരവംശശാസ്ത്രജ്ഞൻ ബ്രാനിസ്ലാ മാലിനോവ്സ്കിയാണ് രണ്ടാം ലോകമഹായുദ്ധസമയത്ത് അദ്ദേഹം പോയി ധാരാളം നരഭോജികളുമായി അഭിമുഖം നടത്തി തുടർന്ന് അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു അത് പരിഷ്കൃത ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അഭിമുഖത്തിന്റെ അവസാനത്തിലും തുടർന്ന് നരഭോജിയുടെ നേതാവിനെ വിട്ടുപോകാൻ പോകുമ്പോഴും അതിനാൽ നരഭോജികൾ മനുഷ്യനെ തിന്നുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർക്ക് മനുഷ്യരെ കഴിക്കാൻ കഴിയും പക്ഷേ മാലിനോവ്സ്കി ഉണ്ടെങ്കിലും നേതാവ് അവിടെയുണ്ട് അതിനാൽ താൻ ഒരു സുഹൃത്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും അതിനാൽ അവർ ഒരു ദോഷവും ചെയ്തിട്ടില്ല തുടർന്ന് നേതാവ് അദ്ദേഹത്തോട് ലോകമഹായുദ്ധത്തെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിന് ഒരു ചോദ്യമുണ്ടായിരുന്നു വൻതോതിലുള്ള കൊലപാതകങ്ങളാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന മനുഷ്യ മാംസം യൂറോപ്യന്മാർക്ക് എങ്ങനെ കഴിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം ചോദിച്ചു അതിനാൽ രണ്ടാം ലോകത്തിൽ അവർ നിരവധി ആളുകളെ കൊന്നു തുടർന്ന് മൃതദേഹങ്ങൾ കിടക്കുകയായിരുന്നു അവയെല്ലാം എങ്ങനെ കഴിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ യൂറോപ്യന്മാർ തങ്ങൾ കൊന്ന ശത്രുവിന്റെ മാംസം ഒരിക്കലും കഴിച്ചിട്ടില്ലെന്ന് മാലിനോവ്സ്കി അദ്ദേഹത്തോട് പറഞ്ഞു അതിനാൽ ഇത് നരഭോജിയെ വളരെ അത്ഭുതപ്പെടുത്തി തുടർന്ന് അവൻ അമ്പരന്നു തുടർന്ന് ഞെട്ടലോടെയും ആശ്ചര്യത്തോടെയും അവൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ഏതുതരം ക്രൂരതക്കാരനാണെന്ന് യഥാർത്ഥ വസ്തുവൊന്നുമില്ലാതെ ആളുകളെ കൊല്ലാൻ അവൻ ഭയത്തോടെ ചോദിച്ചു അതിനാൽ യൂറോപ്യന്മാർ സംസ്കാരമുള്ളവരാണ് തുടർന്ന് നരഭോജികൾ അപരിഷ്കൃതരാണ് എന്നതാണ് മാലിനോവ്സ്കിയുടെ വീക്ഷണം നിങ്ങൾ മനുഷ്യരെ വെറുതെ കൊന്നാൽ പിന്നെ നിങ്ങൾ അവ കഴിക്കാൻ പോകുന്നില്ലെങ്കിൽ എന്നതാണ് നരഭോജികളുടെ ധാരണ അതിനാൽ നിങ്ങൾ ശരിക്കും ക്രൂരതക്കാരാണ് നിങ്ങൾ അനാചാരികളാണ് അതിനാൽ ഇത് നിങ്ങൾ കപ്പ് നോക്കുന്ന രീതി പോലെയാണ് നിങ്ങൾ അത് നോക്കി അത് പകുതി ശൂന്യമാണ് അല്ലെങ്കിൽ പകുതി നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ധാരണകൾ പൂർണ്ണമായും എടുക്കാം ഒരാളുടെ കാഴ്ചപ്പാടിലേക്ക് സംഭാവന ചെയ്യുന്ന മറ്റ് വശങ്ങൾ നോക്കുക പലപ്പോഴും സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം അതായത് പരിസ്ഥിതി സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം പശ്ചാത്തലത്തിൽ ഒരാൾ വളർന്നു അതിനാൽ അത് ഒരാളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ഒരു വീക്ഷണം നൽകുന്നു മിക്കവാറും നമുക്കെല്ലാവർക്കും നമ്മുടേതായ സവിശേഷമായ അനുഭവങ്ങളുണ്ട് തുടർന്ന് ആ വ്യക്തി ഒരാളുടെ മാനസികാവസ്ഥ വികസിപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ സ്വഭാവം വികസിപ്പിക്കുന്നു അത്തരം ആശയങ്ങളും മൂല്യങ്ങളും പോലുള്ള വ്യക്തിത്വം ജീവിതത്തിൽ മതപരവും രാഷ്ട്രീയവുമായ വിശ്വാസങ്ങൾ മുതലായവയുടെ സ്ഥാനം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് വ്യക്തിത്വത്തിന് ഒരുതരം വീക്ഷണം നൽകുന്നു മറ്റ് കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് കീഴടക്കുക അല്ലെങ്കിൽ അത് വൈരുദ്ധ്യമാകാം നാം വഹിക്കുന്ന സ്ഥാനം പോലും നമുക്ക് ഒരു പ്രത്യേക വീക്ഷണം നൽകുന്നുവെന്നും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നുവെന്നും ശ്രദ്ധിക്കുന്നത് രസകരമാണ് ഉദാഹരണത്തിന് അച്ഛൻ്റെ മകൻ്റെ വ്യത്യസ്ത സ്ഥാനങ്ങൾ വളരുമ്പോൾ മകന് അച്ഛന് ഒരിക്കലും മനസ്സിലാകുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു അച്ഛൻ എല്ലായ്പ്പോഴും പറയുന്നത് തൻ്റെ തലമുറ എല്ലായ്പ്പോഴും മികച്ചതായിരുന്നു എന്നാണ് എന്നാൽ മകൻ വളരുമ്പോൾ തൻ്റെ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ അതേ പരാതി തന്നെയാണ് അവൻ പറയുന്നതും അധ്യാപക വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത് പക്ഷേ അവൻ ഒരു അധ്യാപകനായി വളരുമ്പോൾ അതിനാൽ കാഴ്ചപ്പാട് സമാനമായി വിപരീതമാണ് ഉദാഹരണത്തിന് സീനിയർ സീനിയർ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ അവസാന വർഷ വിദ്യാർത്ഥികൾ പോലും പുതിയ വിദ്യാർത്ഥികൾ ജൂനിയർമാർ ചേരുമ്പോൾ അവർ പറയുന്നു റാഗിംഗ് ഒരു അനിവാര്യ തിന്മയാണെന്ന് അവർ പറയും അതിനാൽ അവർ അവരുടെ ഷെല്ലിൽ നിന്ന് പുറത്തുവരും അതിനാൽ അവ വളരെ പ്രകടിപ്പിക്കുന്നതും തുറന്നതും ആയിരിക്കും അതിനാൽ നിങ്ങൾ ജൂനിയറോടും അവരുടെ മാതാപിതാക്കളോടും ചോദിക്കുമ്പോൾ അവർ അവരെ റാഗ് ചെയ്യണം ഇല്ല ഇല്ല ഒരു റാഗിംഗും മോശമല്ലെന്നും അത് ഒരു തിന്മയാണെന്നും അത് നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്നും അവർ പറയും ഇപ്പോൾ വിദ്യാർത്ഥികൾ മുതിർന്നവരായിത്തീരുമ്പോൾ അതേ മാതാപിതാക്കൾ അതിനാൽ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് അവർ പറയും അവർ പക്വതയുള്ള കുട്ടികളാണ് അതിനാൽ അവർ ആരെയെങ്കിലും റാഗ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഒന്നാം വർഷത്തിൽ തങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച അതേ മാതാപിതാക്കൾ രണ്ടാം വർഷത്തിൽ എത്തുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയുന്നു അതിനാൽ ഒരാൾ എടുക്കുന്ന സ്ഥാനം നിരവധി സീരിയലുകൾ നിർമ്മിച്ച മറ്റൊരു രസകരമായ കാര്യമാണ് സീരിയലുകളിൽ ഭർതൃമാതാവും മരുമകളും എടുക്കുന്ന സ്ഥാനങ്ങൾ മരുമകൾ എല്ലായ്പ്പോഴും അമ്മായിയമ്മയെക്കുറിച്ച് പരാതിപ്പെടുകയും അമ്മായിയമ്മ മനസ്സിലാക്കുന്നില്ലെന്ന് അമ്മായിയമ്മയ്ക്ക് എല്ലായ്പ്പോഴും തോന്നുകയും ചെയ്യുന്നു അതിനാൽ മരുമകൾ തന്റെ പ്രതീക്ഷകൾക്കനുസൃതമല്ലെന്ന് അമ്മായിയമ്മ എപ്പോഴും പറയുന്നു അതിനാൽ അവൾ മെച്ചപ്പെടണം അതിനാൽ അവൾ വേണ്ടത്ര ജോലി ചെയ്യുന്നില്ല അവൾ മടിയനാണ് ഇപ്പോൾ അതേ മരുമകൾ അമ്മായിയമ്മയായി വളരുമ്പോൾ സ്ഥാനം മാറുന്നു അപൂർവ കേസുകൾ ഒഴികെ മറ്റൊരു മരുമകളെ ലഭിക്കുമ്പോൾ അവരിൽ പലരും വീണ്ടും മരുമകളായിരുന്നപ്പോൾ ലഭിച്ച അതേ തരത്തിലുള്ള പരാതികൾ നൽകുന്നു ഇപ്പോൾ മാനേജർക്കും തൊഴിലാളി ഭാര്യാഭർത്താക്കന്മാർക്കുമിടയിൽ ഇതേ കാര്യം സംഭവിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചുള്ള രസകരമായ ഒരു കഥ പറയാം വളരെ സ്നേഹമുള്ളതും കരുതലുള്ളതുമായ ഒരു ഭർത്താവ് ഡോക്ടറുടെ അടുത്തേക്ക് പോയി തുടർന്ന് അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് കേൾവിക്കുറവ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു തുടർന്ന് അവൾ സുഖം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവളെ വളരെയധികം സ്നേഹിക്കുന്നു അത് അവളെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം എന്ന് പോലും അവൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കേൾവിക്കുറവിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നു അതിലൂടെ നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടും അതിനാൽ ഡോക്ടർ നന്നായി എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ കേൾവിക്കുറവിന്റെ അളവ് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അതിനാൽ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വീട് എങ്ങനെയുണ്ട് എന്റെ വീട് നാല് വാതിലുകൾ ഉള്ളതുപോലെയാണെന്നും അത് ഒരു തരം കമ്പാർട്ട്മെന്റിലാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ അവൻ നന്നായി പറഞ്ഞു അതിനാൽ നിങ്ങൾ ആദ്യ മുറിയിൽ പോകുമ്പോൾ നിങ്ങൾ അവളോട് എന്തെങ്കിലും ചോദിക്കുന്നു തുടർന്ന് നിങ്ങൾ രണ്ടാമത്തെ മുറിയിൽ പോകുമ്പോൾ നിങ്ങൾ മൂന്നാമത്തെ മുറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നാലാമത്തെ മുറിയിൽ തുടരുക തുടർന്ന് അവൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന സ്ഥലവും നിങ്ങൾ ഇപ്പോൾ വന്ന് എന്നോട് റിപ്പോർട്ട് ചെയ്യുക അവളുടെ നില എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ കഴിയാത്ത സ്ഥലം എനിക്ക് തിരിച്ചറിയാൻ കഴിയും അതിനനുസരിച്ച് എനിക്ക് അവളോട് പെരുമാറാൻ കഴിയും അതിനാൽ അവൻ പോയി തുടർന്ന് അവൻ മുൻവാതിലിൽ നിന്നു തുടർന്ന് അയാൾക്ക് നാലാമത്തെ മുറിയിൽ അടുക്കളയിൽ കാണാൻ കഴിഞ്ഞു അതിനാൽ അയാൾക്ക് അവളെ തിരികെ കാണാൻ കഴിയും തുടർന്ന് അവൾ എന്തെങ്കിലും പാചകം ചെയ്യുകയായിരുന്നു അതിനാൽ അവൻ നിലവിളിച്ചു എന്നിട്ട് അവളെ തേൻ എന്ന് വിളിച്ചു പ്രിയപ്പെട്ടവളേ ഇന്ന് നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നത് അതിനാൽ പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ അവൻ അടുത്ത മുറിയിലേക്ക് മാറി എന്നിട്ട് വീണ്ടും അവൻ നിലവിളിച്ചു ഇന്ന് നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചു വീണ്ടും പ്രതികരണമില്ല അവൻ മൂന്നാമത്തെ മുറിയിലേക്ക് പോയി ഹണി നിങ്ങൾ ഇന്ന് എന്താണ് പാചകം ചെയ്യുന്നത് പ്രതികരണമൊന്നുമില്ല അതിനാൽ അവൻ അടുക്കളയിലെ നാലാമത്തെ മുറിയുടെ അടുത്തേക്ക് പോയി അതിനാൽ അവൻ അവളുടെ അരികിൽ നിന്നു എന്നിട്ട് അവൻ ഹണിയോട് ചോദിച്ചു ഇന്ന് നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് അവൾ കോഴി എന്ന് പറഞ്ഞു ഞാൻ ഇത് നാലാം തവണയും കോഴി എന്ന് നിലവിളിക്കുന്നു ഞാൻ ഇത് നാലാം തവണയും നിലവിളിക്കുന്നു അതായത് കേൾവിക്കുറവ് ഭാര്യയ്ക്കല്ല ഭർത്താവിനോടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കാം അതിനാൽ അവൻ അലറുമ്പോഴെല്ലാം അവൾ പ്രതികരിക്കുകയായിരുന്നു പക്ഷേ അവന് അവളെ കേൾക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവൻ ഭർത്താവാണെന്നും അവൻ കുറ്റമറ്റവനാണെന്നും ഉള്ള സ്ഥാനം കാരണം അവന് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല ഒരു ഭാര്യയാണ് എല്ലായ്പ്പോഴും തെറ്റ് ചെയ്യുന്നത് അതിനാൽ അത് ഭർത്താവിന്റെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു പ്രശ്നം സൃഷ്ടിക്കുന്നത് തൻ്റെ വ്യക്തിത്വമാണെന്നും തൻ്റെ സ്ഥാനമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി അല്ലാതെ തൻ്റെ ഭാര്യയല്ല അതിനാൽ എല്ലായ്പ്പോഴും മറ്റൊരാളുടെ വശത്ത് നിൽക്കുക തുടർന്ന് മറ്റൊരാളുടെ കാര്യമെന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് മനസിലാക്കാൻ ശ്രമിക്കുക സ്റ്റീരിയോടൈപ്പ് ചെയ്യാനും നിഗമനങ്ങളിലേക്ക് ചാടാനുമുള്ള പ്രവണത പോലുള്ള മറ്റ് കാരണങ്ങളുണ്ട് ചില ഘട്ടങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിനാൽ നമ്മൾ ചെയ്യുന്ന നിഗമനങ്ങളാണ് സ്റ്റീരിയോടൈപ്പുകൾ അത്തരം വ്യക്തി എല്ലായ്പ്പോഴും ഒരേ കാര്യം ചെയ്യുമെന്ന് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കും അതിനാൽ ഒരു വേലക്കാരൻ പണം മോഷ്ടിച്ചു നിങ്ങൾ അവനെ പിടികൂടി എല്ലാ വേലക്കാരും ഇതുപോലെയാണെന്ന് നിങ്ങൾ കരുതും അവർ എല്ലായ്പ്പോഴും പണം മോഷ്ടിക്കും അതിനാൽ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമായ മറ്റ് പത്ത് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു സ്റ്റീരിയോടൈപ്പ് രൂപപ്പെടുത്തുകയും തുടർന്ന് നിങ്ങൾ നിഗമനങ്ങളിലേക്ക് ചാടുകയും ചെയ്യുന്നു അത് വിവിധ വിഭാഗങ്ങളുടെ ദേശീയതയ്ക്ക് കീഴിൽ സംഭവിക്കുന്നു അതിനാൽ ഇന്ത്യക്കാർ പാകിസ്ഥാൻകാർ ചൈനക്കാർ അമേരിക്കക്കാർ വ്യത്യസ്ത ആളുകൾ ചിന്തിക്കുന്നത് അവർ വ്യത്യസ്ത മതബോധമുള്ള ജൂതന്മാർ പാർസികൾ ഹിന്ദുക്കൾ മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ വംശം നിറം കറുപ്പ് അല്ലെങ്കിൽ നീഗ്രോ വെള്ള യൂറോപ്യന്മാർ എന്നിവരുമായി പെരുമാറുന്നു എന്നാണ് ജോലിയുടെ കാര്യത്തിൽ വീണ്ടും നമുക്ക് സ്റ്റീരിയോടൈപ്പുകൾ ഉണ്ട് പ്രൊഫസർ ബിസിനസുകാരൻ കള്ളക്കടത്തുകാരൻ റിക്ഷാ വലിക്കുന്നയാൾ സ്വീപ്പർ യാചകൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വീണ്ടും നമുക്ക് സസ്യാഹാരികളായ ആളുകൾക്ക് ഇതുപോലുള്ള സ്റ്റീരിയോടൈപ്പുകൾ ഉണ്ട് സസ്യാഹാരികളല്ലാത്തവർക്ക് ഇതുപോലുള്ള ചില ഗുണങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഐഐടിയിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു സർക്കാർ കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ലാസുകളിൽ പോയിട്ടില്ലെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും മടിയനായ ആത്മാർത്ഥതയില്ലാത്ത വിദ്യാർത്ഥിയാണ് ഐഐടിയിൽ നിങ്ങൾ പത്ത് പോയിന്റർ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ ശരിക്കും മിടുക്കനാണ് നിങ്ങൾ അഞ്ച് പോയിന്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രതിഭയാണ് അതിനാൽ നിങ്ങൾ ഒരു ശരാശരി ആളാണെന്ന് പറയുന്നു ഇപ്പോൾ ആളുകളെ നോക്കുന്നതിനുള്ള ഈ സ്റ്റീരിയോടൈപ്പിക്കൽ രീതി ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അവരെ വ്യക്തിത്വം നിഷേധിക്കുന്നു ഞങ്ങൾ അവരെ വ്യത്യസ്ത ആളുകളായി കാണുന്നില്ല ഞങ്ങൾ അവർക്ക് സവിശേഷത നൽകുന്നില്ല ഈ വ്യക്തികൾ പ്രദർശിപ്പിക്കുന്ന ചിഹ്നങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു അത് യഥാർത്ഥത്തിൽ തെറ്റാണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങൾക്ക് പുറമെ വിവേചനത്തിന്റെ ശക്തിയെ മങ്ങിക്കുന്ന ചിന്തയുടെ ഈ കാഠിന്യമാണ് ഒന്ന് അതിനാൽ നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകളുണ്ട് അവർ പുതിയ വിവരങ്ങളിൽ നിന്ന് പഠിക്കുകയോ പരസ്പരവിരുദ്ധമായ കാഴ്ചപ്പാടുകളൊന്നും സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല അവർ അവരുടെ ചിന്തയിൽ വളരെ കർക്കശക്കാരാണ് ഓ ഇത് ഞാൻ വായിച്ച ഒരു പുതിയ ലേഖനമാണെന്ന് അവരോട് പറയുക അവർ പറയും ഞാൻ ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഹേയ് ഇത് ഇന്ന് പ്രസിദ്ധീകരിച്ചു പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് തങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് അവർ ഒരിക്കലും നിങ്ങളെ വിശ്വസിപ്പിക്കില്ല നിങ്ങൾ പങ്കിടുന്ന എന്തും അവർ പറയും എനിക്കറിയാം എനിക്കറിയാം നിങ്ങൾ ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരേയും പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ആളുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും യഥാർത്ഥത്തിൽ അവ ആശയവിനിമയത്തിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിന് തടസ്സങ്ങളായി പ്രവർത്തിക്കുന്നു ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിനുള്ള ചില പെട്ടെന്നുള്ള തന്ത്രങ്ങൾ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹാനുഭൂതി വളർത്തുക എന്നതാണ് അതായത് ഒരാളുടെ സാഹചര്യം തിരിച്ചറിയാനുള്ള മറ്റുള്ളവരുടെ സന്നദ്ധതയിൽ നിങ്ങൾ സ്വയം ഏർപ്പെടണം ഇപ്പോൾ ആ വൈകുന്നേരം ഭർത്താവ് ഭാര്യയെ ഒരു സിനിമയ്ക്കോ പാർട്ടിക്കോ കൊണ്ടുപോകേണ്ടതുണ്ട് ഭാര്യ വസ്ത്രം ധരിച്ച് തയ്യാറായിരിക്കുന്നു അവൾ വളരെ ആകാംക്ഷയിലാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി അവൾ സ്വയം തയ്യാറെടുക്കുകയാണ് ഭർത്താവ് വളരെ വൈകിയാണ് വരുന്നത് തുടർന്ന് അവൻ വാതിൽ തുറക്കുന്ന നിമിഷം അവൾ അവനെ നോക്കി കാര്യങ്ങൾ എറിയുന്നു ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു എന്ന വസ്തുത അറിയാതെ അവൾ തന്റെ കോപം പ്രകടിപ്പിക്കുന്നു തുടർന്ന് ഭാഗ്യവശാൽ അവൻ രക്ഷപ്പെട്ടു അവന് എന്തെങ്കിലും പ്രഥമശുശ്രൂഷ നൽകി തുടർന്ന് അവൻ വീട്ടിൽ പോലും എത്തിച്ചേർന്നത് ഒരു അത്ഭുതമായിരുന്നു ഇപ്പോൾ അവന് നൽകിയ ഏതെങ്കിലും പ്രഥമശുശ്രൂഷ പോലും അവൾ കണ്ടില്ല ദേഷ്യം യഥാർത്ഥത്തിൽ അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടച്ചു അത് ആരുടെയെങ്കിലും സാഹചര്യം തിരിച്ചറിയാനുള്ള സന്നദ്ധതയാണ് അതിനാൽ ഒരാളോട് ദേഷ്യപ്പെടുന്നതിനുമുമ്പ് എന്നെ പുറത്താക്കേണ്ടത് പ്രധാനമാണെന്ന് ആ വ്യക്തിക്ക് നന്നായി അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ വൈകിയതെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ മുൻവിധികളില്ലാതെ അവന്റെ അല്ലെങ്കിൽ അവളുടെ കാഴ്ചപ്പാട് വിധിതീർപ്പില്ലാത്തതാണെന്ന് അംഗീകരിക്കുക വിപരീത ചിന്തകളും ആശയങ്ങളും സ്വീകരിക്കാൻ ഒരാൾ തയ്യാറായിരിക്കണം ഒരാൾക്ക് ബോധപൂർവ്വം അത് മാറ്റാൻ ശ്രമിക്കണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാഠിന്യം ഉണ്ടായിരിക്കരുത് മനുഷ്യൻറെ മനഃശാസ്ത്രം മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും അവബോധം സഹായിക്കുന്നു കൂടാതെ പശ്ചാത്തല ധാരണയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള അവബോധവും ഓരോ കാഴ്ചപ്പാടും ബഹുമാനിക്കപ്പെടുന്നു എന്നിരുന്നാലും ഒരാളുടെ വാക്കാലുള്ളതും അല്ലാത്തതുമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വിശകലനം നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യാസപ്പെടാം അതിനാൽ നമ്മൾ നോൺ വെർബൽ പെരുമാറ്റത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും പക്ഷേ നിങ്ങൾക്ക് മറ്റേയാൾ നൽകുന്ന നോൺ വെർബൽ സൂചനകൾ നോക്കാൻ പോലും കഴിയണം തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ദേഷ്യത്തിലാണെങ്കിൽ പ്രസക്തമായ വ്യക്തിത്വ സവിശേഷതകൾ വികസിപ്പിക്കണം അതിനാൽ ഉചിതമായ വ്യക്തിത്വ സ്വഭാവം ക്ലൌഡ് വിധിന്യായത്തിലേക്ക് സ്റ്റീരിയോടൈപ്പുകളെ അനുവദിക്കാതിരിക്കുകയും തുടർന്ന് മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് സ്റ്റീഫൻ കോവിയിൽ നിന്ന് ന്യൂവേ സബ്വേ കാറിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സംഭവിച്ച മാതൃകാപരമായ മാറ്റത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥ ഓർക്കുക അതിനാൽ മനുഷ്യന്റെ ധാരണകളെക്കുറിച്ചുള്ള ഈ ആദ്യ ആഴ്ച മൊഡ്യൂൾ 3 ലെക്ചർ 3 ഓർക്കുക അവിടെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റുള്ളവരെ മനസിലാക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് സഹാനുഭൂതിയുണ്ടെങ്കിൽ ആശയവിനിമയത്തിൽ ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഖലീൽ ജിബ്രാനിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണി അദ്ദേഹം പറയുന്നു കരയാത്ത ജ്ഞാനത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുക അതായത് നിങ്ങൾ വളരെ ജ്ഞാനിയും ബുദ്ധിമാനും ആണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നാൽ നിങ്ങൾക്ക് കണ്ണീരിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് അത്തരം അറിവോ ജ്ഞാനമോ വേണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ നിങ്ങൾ ഒരു തത്ത്വചിന്തകനാണ് പക്ഷേ നിങ്ങൾ എല്ലായ്പ്പോഴും മുഖം ഗൌരവമായി സൂക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നിൽ വണങ്ങാത്ത മഹത്വവും അദ്ദേഹം പറയുന്നു അതിനാൽ നിങ്ങൾ വളരെ മികച്ച വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കുട്ടികളുടെ നിഷ്കളങ്കത തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു മഹത്വമായി ഞാൻ കണക്കാക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കേണ്ടതുപോലെയാണ് അത് നിങ്ങളെ ഫലപ്രദമായ ആശയവിനിമയക്കാരനായി വികസിപ്പിക്കാൻ സഹായിക്കും അതിനാൽ ആശയവിനിമയത്തിനുള്ള കൂടുതൽ തടസ്സങ്ങളും അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതുമായി ഞാൻ ഈ ചിന്തയോടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു